നമസ്കാരം കഴിഞ്ഞ സെഷനിൽ നമ്മൾ 3 ഫേസ് സർക്യൂട്ടുകളെക്കുറിച്ച് ചർച്ച ആരംഭിച്ചു അവസാനമായി നമ്മൾ Y Y ബാലൻസ് സർക്യൂട്ടിനെക്കുറിച്ച് ചർച്ചചെയ്തു അതിനർത്ഥം നമുക്ക് Y Y ബാലൻസ് സർക്യൂട്ട് എന്നും പറയാം ഇന്നത്തെ സെഷനിൽ നമ്മൾ Y ∆ ∆ ∆ സർക്യൂട്ടുകൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യും നമുക്ക് ചർച്ച ആരംഭിക്കാം ആദ്യം നമ്മൾ സമീകൃത Y കണക്ഷനുകൾ ചർച്ച ചെയ്യും ഉറവിടം നക്ഷത്രത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന Y ∆ സർക്യൂട്ടുകൾ നമ്മളുടെ പക്കലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് Y എന്ന് പറയാം ലോഡ് ഡെൽറ്റ രൂപത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഉറവിടത്തിന്റെ a ഫേസ് ലോഡിന്റെ A യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു b ലോഡിന്റെ B യിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു തുടർന്ന് c ലോഡിന്റെ C ഫേസുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ രീതിയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും നക്ഷത്ര ഉറവിടം ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിന് ശക്തി നൽകുന്നു ഇപ്പോൾ നിങ്ങൾ ഈ ക്രമീകരണം കാണുകയാണെങ്കിൽ ഉറവിടവും ലോഡും തമ്മിൽ ന്യൂട്രൽ കണക്ഷൻ ഇല്ല എന്ന് നമുക്ക് ലളിതമായി പറയാൻ കഴിയും നമ്മൾ പോസിറ്റീവ് സീക്വൻസ് കരുതുകയാണെങ്കിൽ ഫേസ് വോൾട്ടേജ് അല്ലെങ്കിൽ ലൈൻ മുതൽ ന്യൂട്രൽ വരെയുളള വോൾട്ടേജ് എന്നത് Y Y കണക്ഷൻ ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് എന്നിവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ലൈൻ വോൾട്ടേജ് Vab ആയിരിക്കും ഉറവിടം നക്ഷത്രവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ലൈൻ വോൾട്ടേജ് Vab ആയിരിക്കും ഒപ്പം മൂല്യം നമ്മൾ നേടി Y Y കണക്ഷനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഉരുത്തിരിഞ്ഞത് ഇതാണ് അതുപോലെ

ഈ ക്രമീകരണം നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറവിടത്തിന്റെ ലൈൻ വോൾട്ടേജ് ലോഡിന്റെ ഫേസ് വോൾട്ടേജിന് തുല്യമായിരിക്കും കാരണം ഡെൽറ്റയുടെ AB ഫേസിനു കുറുകെ ലൈൻ വോൾട്ടേജ് Vab വരുന്നു ലോഡ് ഫേസ് വോൾട്ടേജായ Vab VAB എന്ന് നമുക്ക് എഴുതാം ലോഡിന്റെ Vbc VBC Vca VCA ഈ ക്രമീകരണത്തിൽ ഡെൽറ്റ കണക്റ്റു ചെയ്ത ലോഡിന്റെ കാര്യത്തിലോ ഡെൽറ്റ കണക്റ്റ് ഉറവിടത്തിലോ ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജിന് തുല്യമാണെന്ന് മനസ്സിലാകും ഡെൽറ്റ കണക്റ്റുചെയ്ത ഉറവിടം അല്ലെങ്കിൽ ലോഡ് കാണുമ്പോഴെല്ലാം ഡെൽറ്റയുടെ ഫേസ് വോൾട്ടേജ് ഉറവിടമോ ലോഡോ ആകട്ടെ ഡെൽറ്റയുടെ ലൈൻ വോൾട്ടേജിന് തുല്യമാകുമെന്ന് നമ്മൾ പറയും ഈ സിസ്റ്റം കോൺഫിഗറേഷനായി ലൈൻ വോൾട്ടേജ് ലോഡ് ഇംപെഡൻസിനു കുറുകെ ഉളള വോൾട്ടേജിന് തുല്യമാണ് അതായത് ലോഡ്ഇംപെഡൻസിനു കുറുകെ വരുന്ന ഫേസ് വോൾട്ടേജിന് തുല്യമായിരിക്കും ലൈൻ വോൾട്ടേജ് ഇപ്പോൾ നമുക്ക് ലഭിച്ച വോൾട്ടേജ് മൂല്യങ്ങളിൽ നിന്ന് ഫേസ് വൈദ്യുതധാരയുടെ മൂല്യം കണ്ടെത്താൻ കഴിയും അതിനാൽ ഫേസ് കറന്റ് എന്നത് ഈ വൈദ്യുതധാരകൾക്ക് ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ് ഉള്ളതെങ്കിലും ഇവ പരസ്പരം 120 ഡിഗ്രി ഫേസിലായിരിക്കും കാരണം വോൾട്ടേജുകൾ പരസ്പരം 120 ഡിഗ്രി ഫേസിനു പുറത്തായിരിക്കും ഈ ഫേസ് പ്രവാഹങ്ങൾ നേടുന്നതിന് ഇപ്പോൾ നമുക്ക് മറ്റൊരു വഴിയുണ്ട് സമതുലിതമായ വൈ ഡെൽറ്റ കണക്ഷനിൽ നമ്മൾ കിർചോഫ്സ് വോൾട്ടേജ് kirchoff's voltage നിയമം പ്രയോഗിക്കും ഈ ചിത്രം കാണുക കെവിഎൽ എന്ന ലൂപ്പിലേക്ക് പ്രയോഗിക്കുമ്പോൾ അഥവാ ഈ രീതിയിൽ സമാനമായ മൂല്യം കണ്ടെത്താൻ കഴിയും ഇപ്പോൾ നമ്മൾ ലൈൻ കറന്റ് കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഉരുത്തിരിഞ്ഞ ഫേസ് കറന്റ് എടുത്ത് എ ബി സി നോഡുകളിൽ കെസിഎൽ പ്രയോഗിക്കണം അതിനാൽ ഇപ്പോൾ നിങ്ങൾ നോഡ് എയിൽ കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ സമാനമായി ലൈൻ കറന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഫേസ് വൈദ്യുതധാരയുടെ ഇരട്ടിയാണെന്ന് ഇത് കാണിക്കുന്നു അതായത് ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിലെ ഫേസ് വൈദ്യുതധാരയുടെ റൂട്ട് മൂന്നിരട്ടിയാണ് കറന്റിന്റെ വ്യാപ്തി ഡെൽറ്റ കണക്ഷന് ലൈൻ കറന്റ് ഫേസ് കറന്റിന്റെ മടങ്ങ് തുല്യമായിരിക്കും

ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാം നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിന്റെ ലൈൻ കറന്റ് അനുബന്ധ ഫേസ് കറന്റ്ന് 30 ഡിഗ്രി പിന്നിലായിരിക്കും എന്നതാണ് കറണ്ട് എക്സ്പ്രഷനുകളിൽ നിന്ന് ലൈൻ കറന്റ് ഫേസ് കറന്റിനെ 30 ഡിഗ്രി പിന്നിലാക്കുന്നുവെന്ന് കാണാൻ കഴിയും ഫേസർ ഡയഗ്രാമിലെ ലൈൻ കറന്റിനെയും ഫേസ് കറന്റിനെയും പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ IAB യെ ഒരു റഫറൻസായി എടുക്കുകയാണെങ്കിൽ അതായത് IAB യിൽ നിന്ന് 30 ഡിഗ്രി പിന്നിലായിരിക്കും അതുപോലെ IAB നിന്ന് AB 30 ഡിഗ്രിയും ICA നിന്ന് 30 ഡിഗ്രിയും പിന്നിലാകും ഡെൽറ്റ കണക്റ്റുചെയ്താൽ നിലവിലുള്ളത് ഫേസ് പ്രവാഹങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ ബന്ധപ്പെടുമെന്ന് ഇത് ഒരു ആശയം നൽകും നിങ്ങൾ ഓർക്കേണ്ട പ്രധാന കാര്യം ഫേസ് കറന്റിന് Ia നേക്കാൾ ചെറിയ മൂല്യമുണ്ടെന്നതാണ് അതിനാലാണ് ഇത് IAB നേക്കാൾ വലിയ ഫേസർ ഡയഗ്രമിൽ പ്രതിനിധീകരിക്കുന്നത് സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിനും സ്റ്റാർ ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിനെ തുല്യമായ സ്റ്റാർ സ്റ്റാർ കണക്ഷനാക്കി മാറ്റുന്നതിനും ഒരു ഇതര മാർഗമുണ്ട് സ്റ്റാർ ഡെൽറ്റ പരിവർത്തനത്തിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിനെ തുല്യമായ നക്ഷത്ര കണക്റ്റു ചെയ്ത ലോഡിലേക്ക് പരിവർത്തനം ചെയ്യാം അത്തരം സന്ദർഭങ്ങളിൽ എന്ന് പറയാൻ കഴിയും നമുക്ക് സ്റ്റാർ സ്റ്റാർ കണക്ഷന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ സിസ്റ്റം വിശകലനം ചെയ്യാൻ കഴിയും സ്റ്റാർ സ്റ്റാർ കേസിന്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്ത സിംഗിൾ ഫേസ് തുല്യമായ സർക്യൂട്ട് ഉപയോഗിച്ച് ഇവിടെ 3 ഫേസ് സിസ്റ്റം മാറ്റിസ്ഥാപിക്കാം ലൈൻ കറന്റ് കണ്ടെത്താൻ മാത്രം ഇത് നമ്മളെ അനുവദിക്കും എന്ന നമ്മളുടെ സമീപകാല ചർച്ച ഉപയോഗിക്കേണ്ടതുണ്ട് ഈ ബന്ധത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഫേസ് കറന്റ് ലഭിക്കും ഓരോ ഫേസ് പ്രവാഹങ്ങളും അനുബന്ധ ലൈൻ കറന്റിനെ 30 ഡിഗ്രി മുന്നിലോട്ട് ആണ് എന്ന വസ്തുത നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു സ്റ്റാർ ഡെൽറ്റയെ സ്റ്റാർ സ്റ്റാർ കോമ്പിനേഷനായി പരിവർത്തനം ചെയ്യുമ്പോൾ സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് വിശകലനം ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇനി നമുക്ക് 1 ഉദാഹരണം നോക്കാം ഫേസ് വോൾട്ടേജുമായി നക്ഷത്രം ബന്ധിപ്പിച്ച ഉറവിടമാണ് എ ബി സി ഫേസ് സീക്വൻസ് എന്ന് കരുതുക ഒരോ ഫേസിൽ ഡെൽറ്റയുമായി ബന്ധിപ്പിച്ച സമതുലിതമായ ലോഡിലേക്ക് 8 j4 ഇംപെഡൻസ് കണക്റ്റുചെയ്തിരിക്കുന്നു ഫേസ് ലൈൻ പ്രവാഹങ്ങൾ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ലോഡ് ഇംപെഡൻസ് ഫേസർ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും

ഇപ്പോൾ ഫേസ് വോൾട്ടേജ് എന്നത് ലൈൻ വോൾട്ടേജ് എന്തായിരിക്കും ലൈൻ വോൾട്ടേജ് എന്നത് സ്റ്റാർ ഡെൽറ്റ കോമ്പിനേഷന്റെ കാര്യത്തിൽ ഉറവിട ഭാഗത്തിന്റെ ലൈൻ വോൾട്ടേജ് ഡെൽറ്റ ഭാഗത്ത് ഫേസ് വോൾട്ടേജിന് തുല്യമായിരിക്കും ഫേസ് പ്രവാഹങ്ങളുടെ മൂല്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിന്റെ കാര്യത്തിൽ ലൈൻ കറന്റുകൾ എന്തായിരിക്കും ലൈൻ കറന്റ് സ്റ്റാർ ഡെൽറ്റ കോമ്പിനേഷനിലാണെങ്കിൽ ഇത് സ്റ്റാർ ഡെൽറ്റയാണെങ്കിൽ സർക്യൂട്ട് വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ നമുക്ക് സമതുലിതമായ ∆ ∆ കണക്ഷനെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾ ഈ സർക്യൂട്ട് കാണുകയാണെങ്കിൽ സർക്യൂട്ട് ∆ ∆ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ ഉറവിടം ഡെൽറ്റയും ലോഡ് ഡെൽറ്റയും കണക്ഷനുകളാണ് അതിനാൽ ഉറവിട വോൾട്ടേജ് അതായത് ലോഡ് ഇംപെൻഡൻസിനു കുറുകെ Vab Vbc Vca എന്നിവ പ്രയോഗിക്കും ലൈൻ കറന്റ് Ia Ib Ic ആണെങ്കിൽ ലോഡിൽ ഫേസ് കറന്റിനെ എന്നിങ്ങനെ പരിഗണിക്കുന്നു ഇപ്പോൾ രണ്ടും സമീകൃത ഡെൽറ്റ ഡെൽറ്റ കണക്ഷനുകളായതിനാൽ ഉറവിടത്തിൽ നിന്ന് ലോഡിലേക്ക് ന്യൂട്രൽ പാലിക്കാൻ നമുക്ക് കഴിയില്ല കാരണം ഡെൽറ്റ ഡെൽറ്റ കണക്ഷന്റെ കാര്യത്തിൽ ന്യൂട്രൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല പോസിറ്റീവ് സീക്വൻസ് അതായത് സീക്വൻസ് abc ആണെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ ഡെൽറ്റ കണക്റ്റുചെയ്ത ഉറവിടത്തിന്റെ ഫേസ് വോൾട്ടേജ് എന്നത് ലൈൻ വോൾട്ടേജുകൾ ഡെൽറ്റ കണക്ഷന്റെ ഫേസ് വോൾട്ടേജുകൾക്ക് തുല്യമാണ് അതായത് ഡെൽറ്റ കണക്റ്റുചെയ്ത ഉറവിടത്തിനും ലോഡിനും ലൈൻ ഇംപെഡൻസ് ഇല്ലെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിന് ഒരു ഇംപെഡൻസും ഇല്ല ട്രാൻസ്മിഷൻ ലൈൻ നഷ്ടം കുറവാണ് അപ്പോൾ ഡെൽറ്റ കണക്റ്റുചെയ്ത ഉറവിടത്തിന്റെ ഫേസ് വോൾട്ടേജ് ഇംപെഡൻസിനു കുറുകെയുള്ള വോൾട്ടേജിന് തുല്യമായിരിക്കും അതിനാൽ ആ സാഹചര്യത്തിൽ ഇപ്പോൾ വോൾട്ടേജുകളിൽ നിന്ന് നമുക്ക് ഫേസ് കറണ്ട് ലഭിക്കും ഈ സാഹചര്യത്തിൽ ഫേസ് കറണ്ട് കറണ്ട് സമവാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വൈദ്യുതധാരകൾക്ക് ഒരേ അളവാണ് ഉള്ളതെങ്കിലും ഇവ വീണ്ടും 120 ഡിഗ്രി ഫേസിൽ പരസ്പരം വ്യത്യസ്തമാകും കാരണം ഈ വോൾട്ടേജുകൾ പരസ്പരം 120 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ് കറണ്ട് വിവരങ്ങൾ ഉണ്ട് ലൈൻ കറന്റ് കണ്ടെത്തേണ്ടതുണ്ട് എന്നതാണ് അടുത്ത ടാസ്ക് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ലൈൻ കറന്റ് കണ്ടെത്താനാകും നിങ്ങൾക്ക് എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി നോഡുകളിൽ കെസിഎൽ പ്രയോഗിക്കാൻ കഴിയും ഇവിടെ നിങ്ങൾ കെസിഎൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ സമാനമായി ലൈൻ കറന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഫേസ് വൈദ്യുതധാരയുടെ ഇരട്ടിയാണെന്ന് ഇത് കാണിക്കുന്നു അതായത് ഇപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിനുള്ള ഇതര മാർഗം ഉപയോഗിക്കാം ഡെൽറ്റ ഡെൽറ്റ കണക്റ്റുചെയ്ത സർക്യൂട്ടിനെ തുല്യമായ സ്റ്റാർ സ്റ്റാർ കണക്റ്റുചെയ്ത സർക്യൂട്ടിലേക്ക് മാറ്റാൻ കഴിയും അത്തരം സന്ദർഭങ്ങളിൽ ഇരുവശത്തും സ്റ്റാർ ഡെൽറ്റ പരിവർത്തനം ഉപയോഗിക്കണം അവയെ സ്റ്റാർ സ്റ്റാർ കോമ്പിനേഷനായി പരിവർത്തനം ചെയ്യുക അത്തരം സന്ദർഭങ്ങളിൽ ലോഡ് ആയിരിക്കും ഇതാണ് നക്ഷത്ര ഡെൽറ്റ പരിവർത്തനത്തിൽ നിന്ന് നമുക്ക് നേടാനാകുന്നത് ഡെൽറ്റ ഡെൽറ്റ കണക്റ്റുചെയ്ത സർക്യൂട്ടിനെ സ്റ്റാർ സ്റ്റാർ കണക്റ്റുചെയ്ത സർക്യൂട്ടായി പരിവർത്തനം ചെയ്യുമ്പോൾ അവസാന പ്രഭാഷണത്തിൽ സ്റ്റാർ സ്റ്റാർ കണക്റ്റുചെയ്ത സർക്യൂട്ടിന്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ കഴിയും ഇപ്പോൾ നമ്മുടെ സമതുലിതമായ ഡെൽറ്റ ഡെൽറ്റ കണക്ഷനുമായി ബന്ധപ്പെട്ട ഉദാഹരണം നോക്കാം ഈ സാഹചര്യത്തിൽ ഇംപെഡൻസുള്ള സമതുലിതമായ ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡ് V ഉള്ള ഒരു ഡെൽറ്റ കണക്റ്റുചെയ്ത പോസിറ്റീവ് സീക്വൻസ് ജനറേറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മൾ എന്താണ് കണ്ടെത്തേണ്ടത് ലോഡിന്റെ ഫേസ് കറന്റും സർക്യൂട്ടിന്റെ ലൈൻ കറന്റുകളും നമ്മൾ കണ്ടെത്തണം

ഈ സെഷനിൽ നമ്മൾ സ്റ്റാർ ഡെൽറ്റ എന്നും പിന്നീട് ഡെൽറ്റ ഡെൽറ്റ കണക്റ്റുചെയ്ത സർക്യൂട്ടുകൾ എന്നും അറിയപ്പെടുന്ന വൈ ഡെൽറ്റയെക്കുറിച്ച് ചർച്ച ചെയ്തു അടുത്ത പ്രഭാഷണത്തിൽ ഡെൽറ്റ വൈ കണക്റ്റുചെയ്ത സർക്യൂട്ട് അല്ലെങ്കിൽ ഡെൽറ്റ സ്റ്റാർ കണക്റ്റുചെയ്ത സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ ചർച്ച ആരംഭിക്കും